ഇവിടെ നമ്മൾ വാക്വമിലേക്കാണ് നോക്കാൻ പോവുന്നത് റിയലിസ്റ്റിക് മെറ്റീരിയലുകൾ ഉള്ള സാഹചര്യങ്ങൾ പരിശോധിക്കാനുള്ള ആദ്യഘട്ടത്തിലേക്ക് കടക്കാം എങ്ങനെ ബൌണ്ടറി കണ്ടിഷനുകൾ ഇമ്പോസ് ചെയ്യുക എന്നും നോക്കാം നമ്മൾ സങ്കീർണതയിൽ FDTD ഘട്ടം ഘട്ടം ആയി നിർമ്മിക്കുകയാണ് ഇതുവരെ നമ്മൾ പ്രധാനമായും നോക്കിയത് വാക്വമിൽഎങ്ങനെയാണ് കമ്പ്യൂട്ടേഷനൽ സെൽസജ്ജമാക്കുക സ്റ്റബിലിറ്റിയിലേക്ക് എങ്ങനെ നോക്കും കോൺവെർജൻസ്കൃത്യത ഇവയൊക്കെയാണ് ഇനി നമുക്ക് മെറ്റീരിയൽസ്നോക്കാം നമുക്ക് ഡൈഇലക്ട്രിക് മെറ്റീരിയലുകൾതൊട്ട് തുടങ്ങാം ഇപ്പോൾ നിങ്ങളുടെ മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation പറയുന്നത് ഉദാഹരണമായി എനിക്ക് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക എന്തായിരിക്കും ഞാൻ ഉപയോഗിക്കുന്ന കോൺസ്ട്ടിട്യൂട്ടീവ് റിലേഷൻ ഇവിടെ ഞാൻ എങ്ങനെ ഒബ്ജെക്റ്റിന്റെ പെർമിറ്റിവിറ്റിഅവതരിപ്പിക്കും വിദ്യാർത്ഥി എപ്സിലോൺ എപ്സിലോൺ ഇതിലേക്ക് കൊണ്ട് വരണം അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ആണ് ഇനി ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യേണ്ട പ്രാധന കാര്യങ്ങളിൽ ഒന്ന് ഈ ഇക്വേഷന്റെ ഉപയോഗം ആണ് നമ്മൾ അത് കണ്ട് പിടിക്കണം ഇത്രയും നേരം ഇത് നമ്മളെ വഴിതെറ്റിക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ഇത് ശരിയായ രീതിയിൽ കണ്ട് പിടിക്കാൻ ശ്രമിക്കാം അതിനാൽ ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ശരിയാണെന്നു അനുമാനിക്കാം അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ ആയി മാറും ഇങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാ Yee സെല്ലിലുംപെർമിറ്റിവിറ്റി ആയി ഞാൻ തീരുമാനിക്കുന്നു ഇനി ഇത് ഉചിതമായി ഫിക്സ് ചെയ്യുന്നു വിദ്യാർത്ഥി ഓരോ സെല്ലിലും നമുക്ക് കമ്പ്യൂട്ടേഷണൽ ഡോമയിൻ ഉണ്ട് അതേ ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടേഷണൽ ഡോമെയിൻഎന്ന് വിചാരിക്കുക എങ്ങനെ ആണ് Yee സെൽഇതെല്ലാം ഒരു സ്ക്വയർ ഗ്രിഡ് ലേക്ക് എടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇവിടെ ഇതിന് എപ്സിലോൺ 1 ആണ് ആദ്യം ഞാൻ ചെയ്യാൻ പോവുന്നത് എപ്സിലോണിന്റെ പീസ് വൈസ് കോൺസ്റ്റന്റ് അപ്രോക്സിമേഷൻആണ് എവിടെയൊക്കെ സ്ക്വയർ ഗ്രിഡ് ഉണ്ടോ അവിടെ എപ്സിലോൺകോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ അനുമാനിക്കും അതായത് ഇത് എപ്സിലോൺ 1 ഇത് എപ്സിലോൺ 2 അങ്ങനെ ഈ ഗ്രിഡിൽ ഞാൻ എപ്സിലോണിന്റെ മൂല്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്സിലോണിന് ഉചിതമായ മൂല്യം ഇട്ട് കൊണ്ട് അഥവാ mu കൊണ്ട് ഈ അപ്ഡേറ്റ് ഇക്വേഷൻഉപയോഗിക്കുന്നു ഞാൻ റീപ്ലേസ് ചെയ്യുകയും ന് മൂല്യം കൊടുക്കുകയും ചെയ്യുന്നു അതായത് ഓരോ Yee സെല്ലിനും ഉള്ള ഉം ഉം പിന്നെ സാദാരണ അപ്ഡേറ്റ് ഇക്വേഷനും ഇനി എന്റെ മെറ്റീരിയലിന് നോൺ സീറോ കണ്ടക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെ ഞാൻ അത് കൈകാര്യം ചെയ്യും എന്റെ അപ്ഡേറ്റ് ഇക്വേഷനുകൾ എങ്ങനെ അവയെ മാറ്റും വിദ്യാർത്ഥി ലോസി തിങ്ങ് അതേ അവിടെ ലോസി തിങ്ങ്ഉണ്ട് ഞാൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യും വിദ്യാർത്ഥി കോംപ്ലക്സ് പെർമിറ്റിവിറ്റി കോംപ്ലക്സ് പെർമിറ്റിവിറ്റി ഒരു കാര്യം ആണ്പക്ഷെ ഞാൻ കോംപ്ലക്സ് പെർമിറ്റിവിറ്റി ചെയ്യുമ്പോൾഅവിടെയുള്ള പരോക്ഷമായ അനുമാനം എന്താണെന്ന് വെച്ചാൽ പോലെ ഞാൻ ഫീൽഡുകൾ വികസിപ്പിക്കും എന്നാണ് പക്ഷെ എനിക്ക് അത് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് ടൈം ഡോമെയിനിൽതന്നെ നിൽക്കണമെങ്കിൽ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും വിദ്യാർത്ഥി നമ്മൾ പുതിയ കമ്പോണെന്റുകൾഅവതരിപ്പിക്കണം അവതരിപ്പിക്കണം വിദ്യാർത്ഥി പുതിയ കമ്പോണെന്റുകൾ ഒരു പുതിയ കമ്പോണെന്റ് അവതരിപ്പിക്കണം അതേ എങ്ങനെ ഞാൻ അവതരിപ്പിക്കും ഞാൻ ഇത് എഴുതുകയാണ് ആദ്യം കണ്ടക്റ്റിവിറ്റി കൈകാര്യം ചെയ്യണം വിദ്യാർത്ഥി അവിടെ ഒരു ടെർമ് ഉണ്ട് ആദ്യമായി ഈ മാക്സ്വെൽസ് ഇക്വേഷൻMaxwells equationപൂർണമാണോ അവിടെ എന്തെങ്കിലും ഒഴിവായിട്ടുണ്ടോ വിദ്യാർത്ഥി j അതേ j ടെർമ് ഒഴിവായിട്ടുണ്ട് ശരിക്കും അവിടെ വേണ്ടത് വിദ്യാർത്ഥി അതേ സർ J എന്തിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം വിദ്യാർത്ഥി സിഗ്മ അതെന്ത് ലോ ആണ് വിദ്യാർത്ഥി ഓഹ്മ്സ് ലോ Ohms Law അതേ ഓഹ്മ്സ് ലോOhms law അപ്പോൾ ഈ അപ്ഡേറ്റ് ഇക്വേഷൻ ഇങ്ങനെ ആയി മാറും ഇത് നമുക്ക് നമ്മുടെ FDTD നൊറ്റേഷനിൽഇടാം ഞാൻ വെക്ടർ സൈൻ നീക്കം ചെയ്യുകയാണെന്ന് വിചാരിക്കുക എല്ലാ ഇന്റിജർ ഇൻസ്റ്റൻസിലുംഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് ഇനി മാഗ്നെറ്റിക് ഫീൽഡ്പകുതി ഇന്റിജറിൽ അപ്ഡേറ്റ് ചെയ്തു ഉദാഹരണമായി ഞാൻ ഇങ്ങനെ എഴുതും ഞാൻ മുഴുവൻ ഇക്വേഷനും ഡിസ്ക്രീറ്റ് ഫോമിൽ എഴുതി LHS ടൈം n ½ ആണെങ്കിൽ RHS ഉം ടൈം n ½ ആയിരിക്കണം ഇപ്പോൾ ഇത് ഒരു പ്രശ്നം അല്ല കാരണം ഞാൻ ഇത് ഫൈനൈറ്റ് ഡിഫറെൻസസ് കൊണ്ടാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താവും ടൈമിലെ ഫൈനൈറ്റ് ഡിഫറെൻസസ് പിന്നെ അപ്പ്രോക്സിമേഷൻ n ½ൽ കൂടുതൽ കൃത്യമായിരിക്കും ഇത് സ്ഥിരത ഉള്ളതായിരിക്കും ഇതുവരെ നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലെ ഇനി എന്താണ് ഇവിടെ പ്രശ്നം ഞാൻ ഇന്റിജർ ടൈം ഇൻസ്റ്റൻസിൽമാത്രം ആണ് ഇലക്ട്രിക് ഫീൽഡ് സംഭരിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഈ ഇക്വേഷന് വേണ്ടി ഹാഫ് ടൈം ഇൻസ്റ്റൻസിലും വേണം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആവറേജ് എടുക്കണം അല്ലെ എനിക്ക് ഹാഫ് ടൈം ഇന്റിജർ ഇൻസ്റ്റൻസിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് സംഭരിക്കേണ്ട അപ്പോൾ ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഈ ടെർമിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ് അതിനാൽ ഇതാണ് ആവറേജ് ഇതാണ് ഫൈനൈറ്റ് ഡിഫറൻസ് ഇത് മുമ്പത്തെ പോലെ തന്നെ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടക്റ്റിവിറ്റിഉള്ള ഒരു മെറ്റീരിയലിനെകൈകാര്യം ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ ലീപ് ഫ്രോഗ് സിസ്റ്റത്തിൽഎന്തൊക്കെയാണ് ആവശ്യമുള്ളത് അപ്ഡേറ്റ് ചെയ്യണംഎന്ന് കരുതുക ഈ ഇക്വേഷനിൽ നിന്ന് എന്തൊക്കെയാണ് അറിയേണ്ടത് വിദ്യാർത്ഥി നമുക്ക് നമുക്ക് ടൈമിന്റെ ഏറ്റവും പിറകിൽ നിന്ന് തുടങ്ങാം എനിക്ക് അറിയണം അതിന് എനിക്ക് എന്ത് വേണം എന്റെ അപ്ഡേറ്റ് ഇക്വേഷനുകൾ മുമ്പത്തെക്കാൾ പരിഷ്ക്കാരിക്കാൻ എനിക്ക് കഴിയും അതിനാൽ എനിക്ക് ഇവിടെ വരും ഇവിടെ ചെറിയ ഒരു കാര്യം മനസ്സിൽ വെക്കണം ഇതാണ് ഡൈഇലക്ട്രിക്lമെറ്റീരിയൽസ് കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം ഉള്ള വഴി ഈ അപ്ഡേറ്റ് ഇക്വേഷനെ എനിക്ക് ലളിതമാക്കാൻ കഴിയും എനിക്ക് ന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യണം ഞാൻ നെ ഒരുസൈഡിലുംബാക്കിയുള്ളതെല്ലാം മറ്റേ സൈഡിലുംകൊണ്ട് വരും അപ്പോൾ എനിക്ക് ആ സിംപിളിഫിക്കേഷൻ ചെയ്യാൻ കഴിയും ഉദാഹരണമായി എനിക്ക് എന്ത് കിട്ടും നമുക്ക് അത് ചെയ്യാൻ ശ്രമിക്കാം എനിക്ക് ഉം ഉം ഉണ്ട് ഇതാണ് ഇവിടെ കിട്ടുന്ന 2 ടെർമുകൾ ആദ്യത്തെ സ്റ്റെപ് എനിക്ക് കിട്ടുന്നത്ഞാൻ അവസാനത്തെ ഉത്തരം എഴുതാം അത് നിങ്ങൾക്ക് ലളിതമായ കൃത്രിമത്വം നൽകുന്നു നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്താം ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് ഇക്വേഷൻ ഇതിൽ ന്റെയും ന്റെയും മൂല്യങ്ങൾ പ്ലഗ് ഇൻ ചെയ്യുക ഓർമിക്കുക ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത് ഇവിടെ ശരിക്കുമുള്ള ഭാഗത്തെ ആണ് റെഫർ ചെയ്യുന്നത് സിഗ്മ എന്നത് കണ്ടക്റ്റിവിറ്റി ആണ് അത് ലോസ്സ് പാർട്ട്തരുന്നു